അതിനാൽ ഈ പ്രത്യേക മൊഡ്യൂളിൽ ഞങ്ങൾ വ്യത്യസ്ത പാളികളെക്കുറിച്ച് സംസാരിച്ചു സെൻസിംഗ് വ്യവസായങ്ങളിൽ പ്രത്യേകിച്ചും വ്യത്യസ്ത പ്രക്രിയ നിയന്ത്രണ സംവിധാനങ്ങളുണ്ട് PLC SCADA മുതലായ വ്യത്യസ്ത ഓട്ടോമേഷൻ സാങ്കേതികവിദ്യകളെ പിന്തുണയ്ക്കുന്ന വ്യവസായങ്ങൾ ഉപയോഗിക്കുന്നു അതിനാൽ ഈ സാങ്കേതികവിദ്യകളായ PLC SCADA തുടങ്ങിയവയെക്കുറിച്ച് ഞങ്ങൾ ഒരു ഹ്രസ്വ നോട്ടം നടത്താൻ പോകുന്നു കൂടാതെ അവസാനം ഞങ്ങൾ ഉപയോഗിച്ച ഒരു കേസ് പഠനത്തിൽ ഈ PLC SCADA തരത്തിലുള്ള സംവിധാനത്തിന്റെ ഉപയോഗം കാണിച്ചുതരാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്തു ഈ PLC SCADA തരത്തിലുള്ള സംവിധാനത്തിന്റെ സഹായത്തോടെ ഒരു നിശ്ചിത ആപ്ലിക്കേഷൻ നടപ്പിലാക്കുന്നതിന് അതിനാൽ അവസാനം ഞാൻ അത് കാണിച്ചുതരാം അതിനാൽ തുടക്കത്തിൽ തന്നെ നമുക്ക് ആരംഭിക്കാം വ്യവസായ സാഹചര്യത്തിലെ ഈ നിയന്ത്രണ ഭാഗം മനസ്സിലാക്കേണ്ടതുണ്ട് അതിനാൽ വ്യാവസായിക ഉപകരണങ്ങളിൽ ഇത് നിയന്ത്രിക്കുന്ന വ്യത്യസ്ത പ്രക്രിയകളുണ്ട് അവ പ്രവർത്തിക്കുന്ന രീതിയും മറ്റും അതിനാൽ അവിടെ വ്യത്യസ്ത ഇലക്ട്രോ മെക്കാനിക്കൽ ഫീഡ്ബാക്ക് നൽകാനും ഉപയോഗിക്കുന്നു അത് നടപ്പിലാക്കുന്ന പ്രക്രിയയാണ് ഉപയോഗിക്കുന്നത് അതായത് അത് നടപ്പിലാക്കുന്നു ഇത്യാദി അതിനാൽ നാല് പ്രധാന ഘടകങ്ങൾ ഉണ്ട് ഇവിടെ ആദ്യത്തേത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആദ്യത്തേത് പ്രോസസ് വേരിയബിളാണ് സെൻസറുകൾ പോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് അളക്കുന്ന പ്രോസസ് പാരാമീറ്ററുകളുടെ മൂല്യങ്ങളാണ് അടിസ്ഥാനപരമായി പ്രോസസ് വേരിയബിൾ അതിനാൽ ഈ പ്രക്രിയ വേരിയബിളുകൾ അല്ലെങ്കിൽ ഈ പ്രോസസ്സ് പാരാമീറ്ററുകളുടെ മൂല്യങ്ങൾ സെൻസറുകളുടെ സഹായത്തോടെ അളക്കും അപ്പോൾ സെറ്റ് പോയിന്റുകൾ വരുന്നു പ്രക്രിയയുടെ നിയന്ത്രിത പ്രവർത്തനത്തിനുള്ള പ്രോസസ് പാരാമീറ്ററുകളുടെ അടിസ്ഥാന മൂല്യങ്ങളാണ് അടിസ്ഥാന പോയിന്റുകൾ അതിനാൽ ഇത് വളരെ പ്രധാനമാണ് ഇത് ഫീഡ്ബാക്ക് നിയന്ത്രണത്തിനാണ് അതിനാൽ പ്രോസസ്സിന്റെ നിയന്ത്രിത പ്രവർത്തനം അതിനായി നമുക്ക് സെറ്റ് പോയിന്റുകളുടെ ഈ ആശയം ഉണ്ട് അത് പ്രോസസ് പാരാമീറ്ററുകളുടെ സ്റ്റാൻഡേർഡ് മൂല്യങ്ങളാണ് അടുത്തതായി കൺട്രോളർ എന്ന ആശയം വരുന്നു അതിനാൽ കൺട്രോളർ അടിസ്ഥാനപരമായി ചില പ്രവർത്തനങ്ങൾ എടുക്കുന്നു അതിനാൽ സെറ്റ് പോയിന്റ് മൂല്യത്തെയും മറ്റും അടിസ്ഥാനമാക്കിയുള്ള പ്രോസസ് വേരിയബിളിനെ അടിസ്ഥാനമാക്കി അത് ചില തീരുമാനങ്ങളോ പ്രവർത്തനങ്ങളോ എടുക്കുന്നു കൂടാതെ നടപടി സ്വീകരിക്കുന്നതിന് മുമ്പ് ഇത് സെറ്റ് പോയിന്റുകളുമായി പ്രോസസ് വേരിയബിളുകളെ താരതമ്യം ചെയ്യുന്നു അതിനാൽ ഈ കൺട്രോളർ ചെയ്യുന്നത് ഇതാണ് ഈ ചിത്രത്തിലും നിങ്ങൾ ഇവിടെ കാണുന്നത് ഇതാണ് അതിനാൽ ഞങ്ങൾക്ക് ഈ കൺട്രോളർ ഉണ്ട് ഞങ്ങൾക്ക് ആക്റ്റേറ്ററും ഉണ്ട് തുടർന്ന് കൈകാര്യം ചെയ്യാനുള്ള നിയന്ത്രണ തീരുമാനങ്ങളെ അടിസ്ഥാനമാക്കി പരിഷ്ക്കരിച്ച വേരിയബിളുകൾ അടിസ്ഥാനപരമായി പരിഷ്ക്കരിച്ച വേരിയബിളുകൾ ഞങ്ങളുടെ പക്കലുണ്ട് അതിനാൽ ഇത് ഒരു പ്രധാന ഭാഗമാണ് വേരിയബിളുകളുടെ കൃത്രിമത്വം ഈ പ്രത്യേക പ്രക്രിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അതിനായി ഈ അളവ് വളരെ പ്രധാനമാണ് അതിനാൽ നമുക്ക് ഈ കൺട്രോൾ ലൂപ്പ് നോക്കാം കാരണം ഈ കൺട്രോൾ ലൂപ്പാണ് മുഴുവൻ പ്രോസസ്സ് കൺട്രോൾ ഓട്ടോമേഷനിലും ആകർഷകമായ ഭാഗം അതിനാൽ ഈ നിയന്ത്രണ ലൂപ്പ് വ്യാവസായിക നിയന്ത്രണ സംവിധാനങ്ങളുടെ അടിസ്ഥാന ഘടകമാണ് അടിസ്ഥാനപരമായി ഈ നിയന്ത്രണ ലൂപ്പുകൾ ഓട്ടോമാറ്റിക് നിയന്ത്രണം ആളില്ലാത്ത സ്വയംഭരണ നിയന്ത്രണം വ്യാവസായിക പ്രക്രിയ വേരിയബിളുകളുടെ ഓട്ടോമാറ്റിക് നിയന്ത്രണം എന്നിവ ഈ നിയന്ത്രണ ലൂപ്പിന്റെ സഹായത്തോടെ വാഗ്ദാനം ചെയ്യുന്നു അതിനാൽ രണ്ട് തരം നിയന്ത്രണ ലൂപ്പുകൾ ഉണ്ട് ഒന്ന് ഓപ്പൺ ലൂപ്പ് കൺട്രോൾ അതിനാൽ ലൂപ്പ് നിയന്ത്രണം തുറക്കുക ഓപ്പൺ ലൂപ്പ് ഇവിടെ നിയന്ത്രണ തീരുമാനം പ്രോസസ് വേരിയബിളിൽ നിന്ന് സ്വതന്ത്രമാണ് പ്രോസസ്സ് വേരിയബിളിൽ നിന്ന് സ്വതന്ത്രമായി നിയന്ത്രണ തീരുമാനം എടുക്കുന്നു അതേസമയം ക്ലോസ്ഡ് ലൂപ്പ് മെക്കാനിസത്തിന്റെ ഫീഡ്ബാക്ക് മെക്കാനിസത്തിൽ നിയന്ത്രണ തീരുമാനം അടിസ്ഥാനപരമായി പ്രോസസ് വേരിയബിളിന്റെ അളന്ന മൂല്യത്തെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ രണ്ട് തരം നിയന്ത്രണം ഉണ്ട് അതിനാൽ പ്രക്രിയ നിയന്ത്രണത്തിനായി ഉപയോഗിക്കുന്ന വ്യത്യസ്ത വ്യാവസായിക നിയന്ത്രണ സംവിധാനങ്ങളുണ്ട് ഒന്ന് PLC പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോളർ എന്നിവയെ സൂചിപ്പിക്കുന്നു സൂപ്പർവൈസറി നിയന്ത്രണവും ഡാറ്റ ഏറ്റെടുക്കലുകളും S C A D A അതിനാൽ ഈ SCADA യുംഅടിസ്ഥാനപരമായി PLC കളുടെ ആശയം ഉപയോഗിക്കുന്നു അപ്പോൾ എന്താണ് ഈ PLC അതിനാൽ അടിസ്ഥാനപരമായി PLC വ്യാവസായിക നിയന്ത്രണ സംവിധാനമാണ് അതിനാൽ ഇത് കൺട്രോൾ സിസ്റ്റത്തിലെ ഇൻഡസ്ട്രിയൽ കൺട്രോളറാണ് ഇത് വ്യാവസായിക പ്രക്രിയകൾ നിരീക്ഷിക്കുന്നതിനും ചില മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമിനെ അടിസ്ഥാനമാക്കിയുള്ള നിയന്ത്രണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുമുള്ള പ്രോഗ്രാമിംഗ് യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് അതിനാൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമിന് സിസ്റ്റത്തിന് ഒരു മുൻനിശ്ചയിച്ച നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നിയന്ത്രണ പ്രവർത്തനങ്ങൾ നടത്തുന്നു അതിനായി ആദ്യം നിരീക്ഷണം നടത്തേണ്ടതുണ്ട് അതിനാൽ ഇതിൽ ഒരു പ്രോസസർ യൂണിറ്റ് ഒരു മെമ്മറി യൂണിറ്റ് നിങ്ങൾ കണ്ടെത്തും വിതരണ നിയന്ത്രണ സംവിധാനങ്ങൾ പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത നിയന്ത്രണ സംവിധാനങ്ങളാണ് അവ വലിയ അളവിൽ കൺട്രോൾ ലൂപ്പുകളുള്ള സസ്യങ്ങൾ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്നു വലിയ അളവിലുള്ള നിയന്ത്രണ ലൂപ്പുകൾ അടിസ്ഥാനപരമായി ഡിസിഎസിന്റെ അടിസ്ഥാനപരമായി വർദ്ധിച്ച വിശ്വാസ്യത നൽകുന്നു കാരണം വിതരണ നിയന്ത്രണം ഉണ്ട് അതിനാൽ നിങ്ങൾ നിയന്ത്രണം വിതരണം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അടിസ്ഥാനപരമായി വലിയ വിശ്വാസ്യത വാഗ്ദാനം ചെയ്യുന്നു കാരണം നിയന്ത്രണം തന്നെ വിതരണം ചെയ്തു അതിനാൽ ഒരു ഘടകം പരാജയപ്പെട്ടാൽ നിങ്ങൾക്ക് ഇപ്പോഴും മെച്ചപ്പെട്ട വിശ്വാസ്യത ലഭിക്കും ഡിസിഎസിൽ വ്യാവസായിക മേഖലയിലെ വ്യത്യസ്ത ആശയവിനിമയ ആവശ്യകതകൾ പ്രത്യേകിച്ച് നിർമ്മാണ പ്രക്രിയ പ്ലാന്റ് തുടങ്ങിയവയുടെ ആവശ്യകത അതാണ് അതിനാൽ നമുക്ക് ഇപ്പോൾ വളരെ പ്രചാരമുള്ള SCADA നോക്കാം വ്യാവസായിക ഓട്ടോമേഷൻ പ്ലാന്റുകളിൽ SCADA വളരെ ജനപ്രിയമാണ് ഇത് വ്യവസായ 4 0 പശ്ചാത്തലത്തിൽ വളരെ ആകർഷകമാണ് കാരണം ഇവ അടിസ്ഥാനപരമായി ബിൽഡിംഗ് ബ്ലോക്കുകളാണ് കാരണം ഇൻഡസ്ട്രി 4 0 ൽ നമ്മൾ ഓട്ടോമേഷൻ ഈ വ്യത്യസ്ത യന്ത്രങ്ങൾ തമ്മിലുള്ള കണക്റ്റിവിറ്റി സ്വയംഭരണാധികാരം സ്വയം നിരീക്ഷണം നിയന്ത്രണ ഫീഡ്ബാക്ക് തുടങ്ങിയവയെക്കുറിച്ച് ധാരാളം സംസാരിക്കുന്നു അതിനാൽ ഇത്തരത്തിലുള്ള ഉപകരണം SCADA അടിസ്ഥാനമാക്കിയുള്ള ഉപകരണം വ്യവസായത്തിന്റെ ആവശ്യകതകൾ 4 0 നേടുന്നതിന് അടിസ്ഥാനപരമായി സഹായകരമാണ് അതിനാൽ ഓട്ടോമാറ്റിക് ട്രാഫിക് മാനേജ്മെന്റ് തുടങ്ങിയവയിൽ വ്യാവസായിക പ്രക്രിയ ഓട്ടോമേഷൻ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു ഈ പ്രത്യേക പ്രഭാഷണത്തിൽ ജലവിതരണ സംവിധാനത്തിൽ SCADA ഉപയോഗിക്കുന്നതിന്റെ കേസ് പഠനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം പക്ഷേ അതിന് കഴിയും മറ്റ് സസ്യങ്ങളിലും ഉപയോഗിക്കാം അതിനാൽ ജലവിതരണ സമ്പ്രദായം ഐഐടി ഖരഗ്പൂരിലെ ഞങ്ങളുടെ കാമ്പസിലെ ഞങ്ങളുടെ സൌകര്യങ്ങളിലൊന്നിൽ ടെസ്റ്റ് ബെഡ് സ്കെയിലിൽ ജലവിതരണം നിരീക്ഷിക്കുന്നതിന് ഞങ്ങൾ SCADA അടിസ്ഥാനമാക്കിയുള്ള നിയന്ത്രണ സംവിധാനം എവിടെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം അതിനാൽ ഇവ ഈ വ്യത്യസ്ത ഘടകങ്ങളിൽ ചിലതാണ് സെൻസറുകൾ റിലേകൾ ഇവയാണ് ഉപയോഗിക്കുന്ന വ്യത്യസ്ത സൌകര്യങ്ങൾ അതാണ് ഇവയാണ് വ്യത്യസ്ത ഘടകങ്ങൾ ഉപയോഗിക്കുന്നത് അതിനാൽ SCADA യുടെ വാസ്തുവിദ്യ ഇതാ അതിനാൽ ഇവിടെ നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ ഞങ്ങൾ HMI ഉപയോഗിച്ച് ആരംഭിക്കുന്നു അത് ഹ്യൂമൻ മെഷീൻ ഇന്റർഫേസ് ആണ് തുടർന്ന് എച്ച്എംഐയിൽ ആയും അനലോഗ് ഡിജിറ്റലായും തിരിച്ചും മാറ്റുന്നു പരിവർത്തനത്തിനു ശേഷമുള്ള ആ പ്രത്യേക സിഗ്നൽ ഈ ആശയവിനിമയ ശൃംഖലയിലൂടെ ഒഴുകുകയും പിഎൽസിയിലേക്ക് നിന്ന് സെൻസറുകൾ ആക്യുവേറ്ററുകൾ വ്യത്യസ്ത ഫീൽഡ് ഉപകരണങ്ങൾ ഇതുപോലെ നിയന്ത്രിക്കപ്പെടുന്നു കൂടാതെ ഈ ആശയവിനിമയങ്ങൾ രണ്ട് വശങ്ങളുള്ള ആശയവിനിമയമാണ് കാരണം ഇവിടെ നമുക്ക് കാണാൻ കഴിയും കാരണം ഇരട്ട തലയുള്ള അമ്പുകൾ അടിസ്ഥാനപരമായി ഇരട്ട വശങ്ങളുള്ള ആശയവിനിമയ SCADA സിസ്റ്റങ്ങളെ പ്രതിനിധീകരിക്കുന്നു അതിനാൽ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് SCADA PLC എന്നിവയുടെ ഉപയോഗത്തിന്റെ ഒരു ആപ്ലിക്കേഷൻ കാണിക്കാൻ പോകുന്നു അതിനാൽ ജലമേഖലയിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുത്ത ഈ ആപ്ലിക്കേഷൻ ജലവിതരണം പ്രത്യേകിച്ചും ഇത് അടിസ്ഥാനപരമായി ജലസ്രോതസ്സുകളുടെ സ്കൂളിൽ ഐഐടി ഖരഗ്പൂരിലുള്ള ഒരു സൌകര്യമാണ് അതിനാൽ ഇത് ജലവിതരണ നിരീക്ഷണത്തിനായുള്ള ഒരുതരം ലാബ് ടെസ്റ്റ് ബെഡ് സജ്ജീകരണമാണ് പ്രത്യേകിച്ച് ചോർച്ചയും സ്വയംഭരണാധികാരവും തുടർച്ചയായ നിരീക്ഷണവും മറ്റും അതിനാൽ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഒരു വാട്ടർ പൈപ്പുകളുടെ നിരീക്ഷണം അത് ജലത്തിന്റെ ഗുണനിലവാരം നിരീക്ഷിക്കുന്നതിനും മറ്റ് തരങ്ങൾക്കും വിപുലീകരിക്കാം അതിനാൽ ജലവിഭവ വിദ്യാലയത്തിലെ അധ്യാപകനായ പ്രൊഫസർ മനോജ് കുമാർ തിവാരിയും ഈ പ്രത്യേക വിഭാഗത്തിൽ പിഎച്ച്ഡി വിദ്യാർത്ഥിനിയായ മിസ് ഡീനയുമുണ്ട് അതിനാൽ നിങ്ങളുടെ പക്കലുള്ള ഈ പ്രത്യേക സൌകര്യത്തെക്കുറിച്ച് കുറച്ച് വിശദീകരിക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു അതിനാൽ പ്രൊഫസർ തിവാരി ഈ സജ്ജീകരണം എന്താണെന്ന് നിങ്ങൾക്ക് വിശദീകരിക്കാമോ പ്രൊഫസർ മിശ്രയ്ക്ക് നന്ദി അതിനാൽ യഥാർത്ഥത്തിൽ നിങ്ങൾ ഇവിടെ കാണുന്നത് ജലവിതരണത്തിനുള്ള ഒരു പരീക്ഷണ കിടക്കയാണെന്ന് പ്രൊഫസർ മിശ്ര നിർദ്ദേശിച്ചതുപോലെയാണ് അതിനാൽ ഇത് ജലവിതരണ ശൃംഖലയുടെ ഒരു മാതൃകയാണ് സാധാരണയായി നമ്മൾ വയലുകളിൽ കാണുന്നത് മെയിനുകൾ സബ് മെയിനുകൾ ബ്രാഞ്ച് അല്ലെങ്കിൽ വിതരണ പൈപ്പുകൾ എന്നിവയെ പ്രതിനിധാനം ചെയ്യുന്ന വ്യത്യസ്ത വലുപ്പത്തിലുള്ള പൈപ്പുകൾ ഉണ്ട് ഈ നെറ്റ്വർക്ക് വിവിധ പ്രഷർ മീറ്ററുകൾ കൊണ്ട് നന്നായി സജ്ജീകരിച്ചിരിക്കുന്നു ഇപ്പോൾ പിഎൽസി ഉണ്ട് കൂടാതെ ജലത്തിന്റെ ഗുണനിലവാരത്തിനും ഇത് വിപുലീകരിക്കപ്പെടും നിരീക്ഷണം അതിനാൽ ജലവിഭവ വിദ്യാലയത്തിൽ നിന്നുള്ള പ്രൊഫസർ മനോജ് കുമാർ തിവാരിയും ഇവിടെ പിഎച്ച്ഡി വിദ്യാർത്ഥിനിയായ മിസ് ഡീനയുമുണ്ട് അതിനാൽ അവർക്ക് ഉള്ള ഈ പ്രത്യേക സൌകര്യത്തെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ ഞാൻ അവരോട് അഭ്യർത്ഥിക്കുന്നു തുടർന്ന് ജലവിതരണത്തിൽ SCADA യുടെ അപേക്ഷകളും ഞങ്ങൾ നോക്കും അതിനാൽ പ്രൊഫസർ തിവാരി നിങ്ങൾക്കുള്ള ഈ സൌകര്യം എന്താണെന്ന് ദയവായി വിശദീകരിക്കാമോ നന്ദി പ്രൊഫസർ മിശ്ര അതിനാൽ യഥാർത്ഥത്തിൽ ഇത് ഒരു ജലവിതരണ ശൃംഖലയുടെ ഒരു മാതൃകയാണ് യഥാർത്ഥ മേഖലയിൽ നമ്മൾ കാണുന്ന തരത്തിലുള്ള നെറ്റ്വർക്കുകൾ അതിനാൽ വ്യത്യസ്ത പൈപ്പ് വലുപ്പങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുമെങ്കിൽ ഉണ്ട് അതിനാൽ ചിലർ മെയിനുകളും സബ് മെയിനുകളും ബ്രാഞ്ച് പൈപ്പും അനുകരിക്കുന്നു അതിനാൽ ഈ ശൃംഖല വികസിപ്പിക്കുന്നതിനുള്ള ആശയം യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ പരീക്ഷിക്കുക എന്നതാണ് അതിനാൽ ഈ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഈ സിസ്റ്റം ഒരു SCADA PLC അധിഷ്ഠിത സംവിധാനങ്ങളിലൂടെ തത്സമയം നിയന്ത്രിക്കാനും നിരീക്ഷിക്കാനും പ്രവർത്തിക്കാനും വിവിധ പ്രഷർ സെൻസറുകൾ ഫ്ലോ മോണിറ്ററുകൾ ആക്യുവേറ്ററുകൾ എന്നിവ സജ്ജീകരിച്ചിരിക്കുന്നു ഈ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നയാളാണ് ദീന അതിനാൽ സിസ്റ്റത്തിന്റെ വിശദാംശങ്ങൾ കൂടുതൽ വിശദീകരിക്കുമെന്ന് കാണുക അതിനാൽ ദീനയ്ക്ക് വിശദീകരിക്കാമോ ഇവിടെ കാര്യങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് പോലെ നന്ദി സർ ഇത് ഒരു യഥാർത്ഥ ജലവിതരണ ശൃംഖലയുടെ പ്രോട്ടോടൈപ്പാണെന്ന് ഇതിനകം വിശദീകരിച്ചിട്ടുള്ളതിനാൽ ജലവിതരണ ശൃംഖലകൾ വിശാലമായ പ്രദേശങ്ങളിൽ വികസിക്കുന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതിനാൽ അതിന്റെ സ്വമേധയായുള്ള നിരീക്ഷണം ഒരു വെല്ലുവിളി നിറഞ്ഞ ജോലിയാണ് അതിനാൽ SCADA PLC എന്നിവയുടെ ഉപയോഗത്തിലൂടെ ഈ സംവിധാനങ്ങളുടെ വിദൂര നിരീക്ഷണത്തിന്റെ ഒരു രീതി ആവിഷ്കരിക്കുക എന്നതാണ് ഞങ്ങളുടെ ജോലിയുടെ ലക്ഷ്യം ഞങ്ങൾ ജലവിതരണ ശൃംഖലയിലേക്ക് വരുമ്പോൾ ഗുണനിലവാരവും അളവുകോലുകളും പ്രധാനമാണ് ഇപ്പോൾ നമ്മൾ നിരീക്ഷിക്കുന്നത് അളവിലുള്ള പരാമീറ്ററുകൾ മാത്രമാണ് അവ സിസ്റ്റത്തിന്റെ ഇന്റർമീഡിയറ്റ് സ്ഥലങ്ങളിലെ സമ്മർദ്ദവും സിസ്റ്റത്തിന്റെ ഡിമാൻഡ് നോഡുകളിലെ ഫ്ലോ റേറ്റും മാത്രമാണ് ഉദാഹരണത്തിന് ഇവിടെ നമുക്ക് ഈ ഘട്ടത്തിൽ മർദ്ദം നൽകുന്നതിന് പൈപ്പ് നെറ്റ്വർക്കിന്റെ ജംഗ്ഷനിൽ ഒരു പ്രഷർ സെൻസർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ നെറ്റ്വർക്കിന്റെ പല സ്ഥലങ്ങളിലും ഞങ്ങൾക്ക് പ്രഷർ സെൻസറുകൾ ഉണ്ട് വീണ്ടും നമുക്ക് ഇവിടെ നെറ്റ്വർക്കിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആക്യുവേറ്ററുകൾ ഉണ്ട് അതിനാൽ ഈ ആക്റ്റേറ്ററുകൾ യഥാർത്ഥത്തിൽ നിയന്ത്രണ ഉപകരണങ്ങളാണ് അവിടെ നമുക്ക് സ്ഥലങ്ങളിൽ നിന്ന് തന്നെ ഡിമാൻഡ് നിരക്ക് നിയന്ത്രിക്കാൻ കഴിയും അതിനാൽ നെറ്റ്വർക്കിന്റെ വിവിധ സ്ഥലങ്ങളിൽ സ്ഥിതിചെയ്യുന്ന ആക്യുവേറ്ററുകൾ ഇവിടെയുണ്ട് ഈ ആക്റ്റേറ്ററുകൾ അടിസ്ഥാനപരമായി നിയന്ത്രണ ഉപകരണങ്ങളാണ് അവിടെ നെറ്റ്വർക്കിലെ ഈ സ്ഥലങ്ങളിലൂടെ ഒഴുകുന്ന ആവശ്യം വർദ്ധിപ്പിക്കാനോ കുറയ്ക്കാനോ കഴിയും അതിനാൽ ഈ ഔട്ട്ഫ്ലോ ജംഗ്ഷനിൽ നിന്ന് എത്ര ഒഴുക്ക് നിലനിർത്തണം എന്നത് തുറക്കുന്നതിന്റെ അളവുണ്ട് അത്തരം ആക്യുവേറ്ററുകൾ ഉപയോഗിച്ച് നിയന്ത്രിക്കാനാകും അതിനാൽ ആക്റ്റിവേറ്ററുകൾക്ക് ആ വഴി ഒരു വിതരണ ശൃംഖലയിലോ ഒരു വിതരണ പൈപ്പിലോ ഒഴുക്ക് നിയന്ത്രിക്കാൻ കഴിയും കൂടാതെ ഈ ആക്റ്റേറ്ററുകൾ വിദൂരമായി നിയന്ത്രിക്കാനാകും വിദൂരമായി നിരീക്ഷിക്കാൻ കഴിയും അതിനാൽ തത്സമയ സംവിധാനത്തിലെന്നപോലെ ഒരു പൈപ്പിലെ ഒഴുക്ക് നിയന്ത്രിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു പ്രത്യേക മേഖലയിൽ നിന്നുള്ള വിതരണമോ ആവശ്യമോ നിലനിർത്തുന്നതിനോ ഞങ്ങൾ എല്ലായ്പ്പോഴും വയലിലേക്ക് പോകേണ്ടതില്ല അതിനാൽ ഞാൻ കാണിക്കാൻ പോകുന്ന അടുത്ത ഘടകം ഫ്ലോ മീറ്ററുകളാണ് ഉണ്ട് അത് ഇവിടെ പാഡിൽ വീൽ ഫ്ലോ മീറ്ററിലൂടെയുള്ള ഫ്ലോ അറിയാൻ ഒരു വൈദ്യുതകാന്തിക ഫ്ലോ മീറ്ററുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ വൈദ്യുതകാന്തിക ഫ്ലോ മീറ്റർ SCADA സംവിധാനത്തിലൂടെ വിദൂരമായി നിരീക്ഷിക്കുകയും ഡാറ്റ ഞങ്ങളുടെ സിസ്റ്റത്തിൽ ലഭ്യമാകുകയും ചെയ്യും അതുകൊണ്ട് ദീന ഈ ഫ്ലോ മീറ്റർ എന്താണ് അതെന്തു ചെയ്യും സർ അടിസ്ഥാനപരമായി ഫ്ലോ മീറ്റർ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അതിനാൽ ഉപഭോക്തൃ പോയിന്റിൽ എത്രമാത്രം ഡിമാൻഡ് ഉപയോഗിക്കുന്നുവെന്ന് നമുക്കറിയാം യഥാർത്ഥത്തിൽ യഥാർത്ഥ സിസ്റ്റങ്ങളിൽ ഈ ഡാറ്റ ആവശ്യമാണ് ഉപഭോക്താവ് ഉപയോഗിക്കുന്ന ജലത്തിന്റെ അളവ് ഉപഭോക്താക്കൾക്ക് ബിൽ ചെയ്യുന്നതിന് ഈ ഡാറ്റ ആവശ്യമാണ് അതിനാൽ എല്ലാം തത്സമയം നിരീക്ഷിക്കാൻ കഴിയും ആ SCADA ൽ അതെ സർ SCADA അടിസ്ഥാനമാക്കിയുള്ള സംവിധാനങ്ങൾ അതിനാൽ വാസ്തവത്തിൽ ഈ ഫ്ലോ മീറ്റർ ഒരു നിശ്ചിത സന്ദർഭത്തിൽ ഒഴുകുന്ന ജലത്തിന്റെ അളവ് രേഖപ്പെടുത്തുന്നു തുടർന്ന് അതിന് ഒരു ടോട്ടലൈസറും ഉണ്ട് അതിനാൽ ഒരു നിശ്ചിത കാലയളവിൽ ഈ പൈപ്പിലൂടെ മൊത്തം വെള്ളം എങ്ങനെ കടന്നുപോയി എന്ന് നമുക്കറിയാം ഉപഭോക്താക്കൾക്ക് ബില്ലിംഗ് നടത്തുമ്പോൾ അതാണ് യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് കാരണം അവരുടെ വീടുകളിലേക്ക് എത്രമാത്രം വെള്ളം കടന്നിട്ടുണ്ട് അവർ എന്ത് ഉപഭോഗമാണ് ഉണ്ടാക്കിയത് അതിനാൽ അതിന്റെ അടിസ്ഥാനത്തിൽ വെള്ളത്തിന്റെ ബില്ലിംഗ് നടത്താം അതിനാൽ ദീന അതിനാൽ ഈ പ്രത്യേക ഉപകരണത്തെക്കുറിച്ച് നിങ്ങൾക്ക് കുറച്ചുകൂടി വിശദീകരിക്കാമോ വിസ്കോമീറ്റർ അതിനാൽ ഈ പാഡിൽ വീൽ ഫ്ലോ മീറ്റർ ഒരു പുൾ ആയിരിക്കണം അതിനാൽ ഞങ്ങൾ പാഡിൽ വീൽ ഫ്ലോ മീറ്റർ തുറക്കുന്നത് ഇങ്ങനെയാണ് ഈ പാഡിൽ വീൽ ഫ്ലോ മീറ്റർ തുറന്ന് ജലപ്രവാഹം സ്ഥിരപ്പെടുത്തുമ്പോൾ ഈ പാഡിൽ വീൽ ഫ്ലോ മീറ്ററിലൂടെയുള്ള ഫ്ലോ റേറ്റിനുള്ള വായന ഇവിടെ പ്രദർശിപ്പിക്കും കൂടാതെ ഒരു നിശ്ചിത കാലയളവിൽ ഈ ഫ്ലോ മീറ്ററിലൂടെ കടന്നുപോകുന്ന മൊത്തം ജലത്തിന്റെ അളവും ഇവിടെ പ്രദർശിപ്പിക്കും അതിനാൽ ഇപ്പോൾ പോലെ ഒഴുക്ക് ഇല്ലെങ്കിലും അതിനാൽ ഇത് മണിക്കൂറിൽ 0 മീറ്റർ ക്യൂബ് കാണിക്കുന്നു എന്നാൽ ടോട്ടലൈസർ ൽ നിന്ന് ഇത് പ്രവർത്തനം ഇൻസ്റ്റാൾ ചെയ്തു അല്ലെങ്കിൽ 0 പോയിന്റിൽ പുനസജ്ജമാക്കുക ആ ഘട്ടത്തിൽ നിന്ന് മുന്നോട്ട് 1345 മീറ്റർ ക്യൂബ് ഒഴുക്ക് ഇതിനകം അവിടെ കടന്നുപോയി അത്ഭുതകരമായ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാവുന്ന മറ്റ് ഉപകരണങ്ങൾ ഇവിടെ മറ്റെന്തെങ്കിലും ഉണ്ടോ കാലാവസ്ഥ നിരീക്ഷണ സ്റ്റേഷൻ പോലെയുള്ള മറ്റ് ഉപകരണങ്ങൾ അത് ശരി ഇവിടെ കാണാം ഇത് അടിസ്ഥാനപരമായി കാലാവസ്ഥാ ഡാറ്റ തത്സമയം ശേഖരിക്കുകയും ഈ നെറ്റ്വർക്കിൽ നിന്ന് ഞങ്ങൾ ചെയ്യുന്ന മറ്റൊരു രസകരമായ ജോലി കാരണം യഥാർത്ഥ ഫീൽഡ് നെറ്റ്വർക്കിലെ ഒരു പ്രധാന വെല്ലുവിളി ജലനഷ്ടത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതിനാൽ ഇന്ത്യയിലെ നഗര വിതരണ ശൃംഖലയിൽ വിതരണ ശൃംഖലകൾ പറയുന്നത് 40 ശതമാനം ഓർഡറിന്റെ നഷ്ടം മാത്രമാണ് അത് ഒരു വലിയ തുകയാണ് അടിസ്ഥാനപരമായി ഈ നഷ്ടങ്ങൾ തത്സമയം കണ്ടെത്താനോ അതിനുശേഷമോ യാതൊരു സംവിധാനവുമില്ല കാരണം നമ്മൾ കണ്ടെത്തുന്നതുവരെ തിരുത്തൽ സാധ്യമല്ല അതിനാൽ ആദ്യത്തെ വെല്ലുവിളി കണ്ടെത്തലാണ് അതിനാൽ ഇത്തരത്തിലുള്ള ആക്റ്റുവേറ്ററുകൾ ഉപയോഗിച്ച് ഈ നെറ്റ്വർക്കുകളിൽ കൃത്രിമമായി ചോർച്ച സൃഷ്ടിക്കുകയും വിതരണ ശൃംഖലയിൽ നിന്നുള്ള ചോർച്ചകൾ തത്സമയം കണ്ടെത്തുന്നതിനുള്ള ഒരു സംവിധാനം വികസിപ്പിക്കുകയും ചെയ്യുന്നു അതിനാൽ പ്രൊഫസർ തിവാരി നിങ്ങൾ ഇപ്പോൾ പറഞ്ഞത് ജലവിതരണം പ്രത്യേകിച്ചും വിതരണം നെറ്റ്വർക്കിലൂടെയുള്ള വിതരണത്തിന്റെ നിയന്ത്രണം എന്നിവയെക്കുറിച്ചാണെന്നും നെറ്റ്വർക്കിന്റെ വിവിധ പോയിന്റുകളിൽ ജലത്തിന്റെ ഗുണനിലവാരം നിരീക്ഷിക്കുന്നതിനായി ഇത് വിപുലീകരിക്കാൻ കഴിയുമെന്നും തീർച്ചയായും അതിനാൽ ഞങ്ങൾ ഒരു ഗുണനിലവാര പാരാമീറ്റർ അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റി പാരാമീറ്റർ നിരീക്ഷിക്കുന്നുണ്ടോ എന്നത് പോലെ ഞങ്ങൾക്ക് ഒരു സെൻസർ ആവശ്യമാണ് അതിനാൽ വിതരണ ലൈനിലെ മർദ്ദം നിരീക്ഷിക്കുന്ന പ്രഷർ സെൻസറുകൾ ഉള്ളതുപോലെ നമുക്ക് തീർച്ചയായും ശേഷിക്കുന്ന ക്ലോറിൻ PH ORP TDS പോലുള്ള ജലത്തിന്റെ ഗുണനിലവാര സെൻസർ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും അതിനാൽ ഇതിനായി സെൻസറുകൾ ലഭ്യമാണ് ഞങ്ങൾ ഈ നെറ്റ്വർക്കിൽ ആ സെൻസറുകൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഒടുവിൽ നമുക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും ധാരണയുണ്ടാകും അതിനാൽ ഈ കാര്യങ്ങളിൽ ഞങ്ങൾ ഈ സെൻസറുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിനാൽ ഞങ്ങൾക്ക് തത്സമയ ജല ഗുണനിലവാര പാരാമീറ്ററുകൾ നേടാനും കഴിയും അതിനാൽ ഉപഭോക്താക്കൾക്ക് അവരുടെ വിതരണ ശൃംഖലയിലൂടെയോ ജലവിതരണ സംവിധാനങ്ങളിലൂടെയോ ലഭിക്കുന്ന ജലത്തിന്റെ ഗുണനിലവാരം പോർട്ടബിൾ ഗുണനിലവാരത്തിലോ ആഭ്യന്തരമായി ഉപയോഗയോഗ്യമായ ഗുണനിലവാരത്തിലോ ആണെന്ന് ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകാൻ കഴിയും അതിനാൽ ഈ വ്യത്യസ്ത സെൻസർ മൂല്യങ്ങൾ ഈ പ്രത്യേക മൂല്യം വരുന്ന നിർദ്ദിഷ്ട സ്ഥാനവുമായി ടാഗുചെയ്യുന്നു അതിനാൽ അത് അളവിലോ ഗുണനിലവാരത്തിലോ ആകട്ടെ അതിനാൽ വരാനിരിക്കുന്ന നിർദ്ദിഷ്ട വായന അതിനാൽ ഈ സെൻസർ മൂല്യം വന്ന ഈ പ്രത്യേക പോയിന്റിൽ നിന്നോ ലൊക്കേഷനിൽ നിന്നോ ആണെന്ന് ഒരാൾക്ക് അറിയാൻ കഴിയുമോ തീർച്ചയായും പ്രൊഫസർ മിശ്ര അതിനാൽ ഈ ഉപകരണങ്ങളെല്ലാം സെൻസറുകൾക്ക് ജിയോ ടാഗ് ചെയ്യാനും കഴിയും അതിനാൽ നമുക്ക് താഴേക്ക് പോകാം വ്യത്യസ്ത സ്ഥലങ്ങളിൽ സ്ഥിതിചെയ്യുന്ന ഈ സെൻസറുകൾ എങ്ങനെയാണ് ഈ വിഷയത്തിൽ ടാഗുചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് കാണാം അതിനാൽ നിങ്ങൾക്ക് പ്രത്യേകമായി അറിയാൻ കഴിയും ഏത് സ്ഥലത്തുനിന്നാണ് ഡാറ്റ വന്നു ഏത് സ്ഥലത്തുനിന്നാണ് നമുക്ക് എത്രമാത്രം വായനയോ ഇഷ്ടമോ നിരീക്ഷിക്കാനാകുക ഗുണനിലവാരത്തിന്റെയോ അളവ് സെൻസറുകളുടെയോ സഹായത്തോടെ തത്സമയം ഈ നിർദ്ദിഷ്ട സ്ഥലങ്ങൾ അതിനാൽ നമ്മൾ ഇതുവരെ കണ്ടത് അടിസ്ഥാനപരമായി ജലവിതരണ ശൃംഖലയാണ് അതിന്റെ ഭൌതിക ഭാഗം വ്യത്യസ്ത ജല പൈപ്പുകളും അവയുടെ ശാഖകളും മറ്റും കാണിക്കുന്ന ടെസ്റ്റ് ബെഡ് അവ എങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത് അവർ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് അവ എങ്ങനെ സ്ഥിതിചെയ്യുന്നു അതിനാൽ ഞങ്ങൾ അത് കണ്ടു വ്യത്യസ്ത സെൻസറുകൾ വാട്ടർ പ്രഷർ സെൻസർ മറ്റ് വാട്ടർ മോണിറ്ററിംഗ് സെൻസറുകൾ തുടങ്ങിയ ഐഒടി ഉപകരണങ്ങൾ എന്നിവ വ്യത്യസ്ത പോയിന്റുകളിൽ സ്ഥിതിചെയ്യുന്നുവെന്നും സെൻസർ മൂല്യങ്ങൾ നിർദ്ദിഷ്ട ജിയോ ലൊക്കേഷനിൽ ടാഗുചെയ്ത് ആ പ്രത്യേക മൂല്യം വന്നതായും ഞങ്ങൾ കണ്ടു അതിനാൽ അടിസ്ഥാനപരമായി ഒരാൾക്ക് ഇരിക്കാനും നിരീക്ഷിക്കാനും കഴിയുന്ന ഒരു കേന്ദ്ര പോയിന്റിൽ നിന്ന് ഇവയെല്ലാം നിരീക്ഷിക്കാൻ കഴിയും ജലവിതരണ സംവിധാനത്തിന്റെ പൂർണ്ണമായ ചിത്രം നോക്കുക അതിനാൽ ഈ പ്രത്യേക സൌകര്യം ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള മറ്റൊരു സ്ഥലത്ത് നിന്ന് ഞങ്ങൾ താഴേക്ക് പോകാൻ പോകുന്നു ആ പ്രത്യേക സ്ഥലത്ത് നിന്ന് എങ്ങനെയാണ് കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇത് SCADA ഉപയോഗിച്ച് പ്രവർത്തനക്ഷമമാക്കി ഇത് PLC ഉപയോഗിച്ച് പ്രവർത്തനക്ഷമമാക്കി അതിനാൽ മൊത്തത്തിലുള്ള ജലവിതരണ ശൃംഖല കേന്ദ്രീകൃതമായി നിരീക്ഷിക്കാൻ ഈ SCADA PLC അധിഷ്ഠിത സംവിധാനം എങ്ങനെ സഹായിക്കുമെന്ന് ഞങ്ങൾ കാണാൻ പോകുന്നു അതിനാൽ നിങ്ങൾ ഇതുവരെ കണ്ട ജലവിതരണ സംവിധാനം നിരീക്ഷിക്കാനും കേന്ദ്രീകൃതമായി നിയന്ത്രിക്കാനും കഴിയുന്ന നിരീക്ഷണ കേന്ദ്രത്തിൽ ഞങ്ങൾ കൺട്രോൾ റൂമിലാണ് അതിനാൽ എന്റെ പുറകിൽ അടിസ്ഥാനപരമായി PLC കൺട്രോളറാണ് എന്റെ ഇടതുവശത്ത് സൂപ്പർവൈസറി നിയന്ത്രണത്തിനും നിരീക്ഷണത്തിനും സഹായിക്കുന്ന SCADA അടിസ്ഥാനമാക്കിയുള്ള സംവിധാനമുണ്ട് അതിനാൽ ഞങ്ങളുടെ പക്കലുള്ളത് ഈ പ്രത്യേക പാനലിനുള്ളിൽ എന്താണെന്ന് ഞാൻ കാണിച്ചുതരാം അതിനാൽ ഇത് PLC നിയന്ത്രണ പാനലാണ് അതിനാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നതുപോലെ ധാരാളം ഇലക്ട്രോണിക്സുകളും മറ്റും ഉണ്ട് അതിനാൽ ഇതാണ് PLC കൺട്രോളർ ഇതാണ് പ്രധാന പിഎൽസി കൺട്രോളറും ദീനയും ഞങ്ങൾക്ക് ഇവിടെയുള്ള മറ്റ് വ്യത്യസ്ത പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിക്കാൻ ഞാൻ ഇപ്പോൾ നിങ്ങളോട് അഭ്യർത്ഥിക്കാമോ തീർച്ചയായും സർ നിങ്ങൾക്ക് ഇവിടെ കാണാനാകുന്നതുപോലെ ഇവിടെയുള്ള വയറുകളുടെ സംവിധാനം മുകളിലെ നിലയിലെ സെൻസറുകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു അവിടെ ഞങ്ങൾ ഇതിനകം സിസ്റ്റം കണ്ടിരുന്നു അതിനാൽ എല്ലാ പ്രഷർ സിഗ്നലുകളും ഫ്ലോ സിഗ്നലുകളും അനലോഗ് രൂപത്തിലാണ് ഇത് വയറുകളുടെ സിസ്റ്റത്തിലേക്ക് ഈ സ്ഥലത്തേക്ക് മാറ്റുന്നു അതിനാൽ ഇവിടെയുള്ള ഈ ഘടകങ്ങളെല്ലാം അടിസ്ഥാനപരമായി അനലോഗ് സിഗ്നലുകൾ ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറ്റാനാണ് ഈ ഘടകങ്ങൾ ആ ഉദ്ദേശ്യത്തിനായുള്ളതാണ് ശരിയാണ് എന്നിരുന്നാലും ഈ സിസ്റ്റത്തിന്റെ പ്രധാന ഭാഗമാണിത് ഇവിടെയാണ് അനലോഗ് ഇൻപുട്ട് സിഗ്നലുകൾ ഇവ രണ്ട് അനലോഗ് ഔട്ട്പുട്ടുകളാണ് ഇവ ഡിജിറ്റൽ ഔട്ട്പുട്ടുകളാണ് നിങ്ങൾ ഇതിനകം സൂചിപ്പിച്ചതുപോലെ ഇത് PLC ആണ് അതിനാൽ ഞാൻ ഇതിൽ കുറച്ചുകൂടി ചേർക്കും അതിനാൽ ഈ ഒരു കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ ഞങ്ങൾ നെറ്റ്വർക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതിനാൽ അതിനാൽ ഈ വയറുകളിലൂടെ ഞങ്ങൾക്ക് സിഗ്നലുകൾ ലഭിക്കുന്നു അല്ലെങ്കിൽ സെൻസറുകളിൽ നിന്ന് നിരീക്ഷിക്കപ്പെടുന്നു എന്നാൽ യഥാർത്ഥ ഫീൽഡുകളിൽ എന്താണ് സംഭവിക്കുന്നത് ഈ SCADA സിസ്റ്റങ്ങൾ അല്ലെങ്കിൽ യഥാർത്ഥ ഫീൽഡ് സിസ്റ്റങ്ങൾ നമ്മൾ അത് പ്രയോഗിക്കുമ്പോൾ വലിയ വിതരണ ശൃംഖലയും സിസ്റ്റവും ഉണ്ടെന്ന് പറയാം അവിടെ ചില സ്ഥലങ്ങളിൽ അതിനാൽ ഇത് വളരെ ബുദ്ധിമുട്ടായിത്തീരുന്നു വിദൂര പോയിന്റുകളിൽ നിന്ന് വയർഡ് സിഗ്നൽ ലഭിക്കാൻ അതിനാൽ നമുക്ക് വയർലെസ് സാങ്കേതികവിദ്യ ഉപയോഗിക്കാൻ കഴിയും എന്നതാണ് അതിനാൽ ഡാറ്റ രേഖപ്പെടുത്തുന്ന സെൻസറുകളും വയർലെസ് ആശയവിനിമയത്തിലൂടെയും നേരിട്ട് പിഎൽസിയിലേക്ക് അയയ്ക്കാം അതിനാൽ അടിസ്ഥാനപരമായി നിങ്ങൾ പറയുന്നത് വയർഡ് സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നതിനുപകരം ഈ പ്രത്യേക കൺട്രോളറിലേക്ക് യഥാർത്ഥ സെൻസറുകളിൽ നിന്നുള്ള ഡാറ്റ അയയ്ക്കുന്നതിന് ഞങ്ങൾക്ക് വയർലെസ് ആശയവിനിമയ സാങ്കേതികവിദ്യ ഉപയോഗിക്കാം തീർച്ചയായും അത് യഥാർത്ഥത്തിൽ സ്ഥലത്താണ് അത് ഇതിനകം തന്നെ ചില സ്ഥലങ്ങളിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ പറയുന്നതുപോലെ ഇത് കൂടുതൽ ഉപയോഗപ്രദവും കൂടുതൽ സൌകര്യപ്രദവുമാണ് കാരണം വയർലെസ് സാങ്കേതികവിദ്യ നിങ്ങൾക്ക് വയറുകൾ കുഴിക്കേണ്ടതില്ല അതിലൂടെ വ്യത്യസ്ത കേബിളുകളിലൂടെ നിങ്ങൾ ബന്ധിപ്പിക്കേണ്ടതില്ല അതിനാൽ പിഎൽസിയിലേക്ക് എല്ലാ വിവരങ്ങളും എത്തിക്കുന്നതിന് അത്തരമൊരു നീണ്ട വയർഡ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യേണ്ടതില്ല എന്ന ആവശ്യം നിങ്ങൾ അടിസ്ഥാനപരമായി നിയന്ത്രിക്കേണ്ടതില്ലാത്തതിനാൽ ഇത് കൂടുതൽ ഉപയോഗപ്രദമാകും നിങ്ങൾക്ക് സെൻസർ അത് രേഖപ്പെടുത്തുകയും വയർലെസ് ആശയവിനിമയത്തിലൂടെ അത് നേരിട്ട് പിഎൽസി സിസ്റ്റത്തിലേക്ക് അയയ്ക്കുകയും ബാക്കിയുള്ള പ്രക്രിയ എളുപ്പമാക്കുകയും ചെയ്യും അതിനാൽ എന്റെ വലതുവശത്ത് അടിസ്ഥാനപരമായി SCADA HMI ആണ് ഇത് അടിസ്ഥാനപരമായി മുഴുവൻ ജലവിതരണ സംവിധാനവും ഗ്രാഫിക്കലായി നോക്കാനും അടിസ്ഥാനപരമായി ഏത് പോയിന്റിൽ നിന്ന് എത്രമാത്രം വെള്ളം ഒഴുകുന്നു എന്നതിനെക്കുറിച്ചും ഏതെങ്കിലും ചോർച്ചയുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും പൂർണ്ണമായ അറിവ് നേടാൻ നിങ്ങളെ സഹായിക്കുന്നു ഈ പ്രത്യേക ഇന്റർഫേസിലൂടെ കണ്ടെത്താനാകുന്ന പോയിന്റുകളും അതിനാൽ ഈ പ്രത്യേക പാനലിൽ ചോർച്ച എങ്ങനെ നിരീക്ഷിക്കാമെന്ന് നിങ്ങൾക്ക് കാണിച്ചുതരാനാകുമോ തീർച്ചയായും സർ സർ ഒരു പരീക്ഷണാത്മക ആവശ്യത്തിനായി എനിക്ക് ഒരു സ്ഥലത്ത് ഒരു ചോർച്ച സൃഷ്ടിക്കണമെങ്കിൽ ഞാൻ എച്ച്എംഐയിൽ നിന്ന് എനിക്ക് നിയന്ത്രണമുള്ള ആക്യുവേറ്ററുകൾ ഉപയോഗിക്കും അതിനാൽ ഇവിടെ നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ ഇത് ഇപ്പോൾ പൂജ്യം ശതമാനമാണ് അതിനർത്ഥം അതിന് ചോർച്ചയില്ല എന്നാണ് അതിനാൽ ഞാൻ ഇവിടെ ക്ലിക്കുചെയ്ത് ഞാൻ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന ചോർച്ചയുടെ ആവശ്യമായ ശതമാനം ക്ലിക്കുചെയ്യുന്നു അതേ ശതമാനം തുറക്കുന്നതും യഥാർത്ഥ സിസ്റ്റത്തിൽ ചെയ്യപ്പെടും ഇവിടെ കാണിച്ചിരിക്കുന്നതുപോലെ വെള്ളം ഒഴുകും അതിനാൽ ഞങ്ങൾ ചർച്ച ചെയ്യുന്ന ചോർച്ച കണ്ടെത്തുന്നത് പോലെ ഈ ചോർച്ച യഥാർത്ഥത്തിൽ നിരീക്ഷിക്കപ്പെടുന്നു കാരണം ഇതൊരു പരീക്ഷണ ശൃംഖലയാണ് അതിനാൽ ഇവിടെ ഞങ്ങൾ കൃത്രിമമായി ചോർച്ച സൃഷ്ടിക്കുന്നു തുടർന്ന് ഞങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ സിമുലേഷനിലൂടെ ചോർച്ചയുടെ സ്ഥാനവും ഒരു പരിധിവരെ അളക്കലും നമുക്ക് തിരിച്ചറിയാൻ കഴിയും അതിനാൽ പ്രൊഫസർ തിവാരി അതിനാൽ നിങ്ങൾക്ക് ഇവിടെ അതിശയകരമായ ഒരു സൌകര്യമുണ്ട് അതിനാൽ SCADA അടിസ്ഥാനമാക്കിയുള്ള സംവിധാനങ്ങൾ എല്ലായിടത്തും ലഭ്യമാണ് അതിനാൽ ഇത് ജലവിതരണ നിരീക്ഷണത്തിന് SCADA അടിസ്ഥാനമാക്കിയുള്ള സംവിധാനത്തിന്റെ ഒരു ഉദാഹരണമാണ് അങ്ങനെ ഇത് സ്വകാര്യ ഫാമുകളിലൊന്ന് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കുറച്ച് സംസാരിക്കാൻ കഴിയും അല്പം കുറിച്ച് ഇത് യഥാർത്ഥത്തിൽ ചെന്നൈ ആസ്ഥാനമായുള്ള കമ്പനി PLC സിസ്റ്റംസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് അതിനാൽ അവർ ഈ ഇൻസ്റ്റാളേഷൻ ചെയ്തു എനിക്ക് അറിയാവുന്നിടത്തോളം ഇത് രാജ്യത്തെ ആദ്യത്തെ സൌകര്യമാണ് എവിടെ ഒരു ലാബ് സ്കെയിലിൽ നമുക്ക് അടിസ്ഥാനപരമായി നിയന്ത്രണം നിരീക്ഷിക്കാനും ജലവിതരണ ശൃംഖല പ്രവർത്തിപ്പിക്കാനും ശ്രമിക്കാം ശരി അതിനാൽ അടിസ്ഥാനപരമായി ഇത്തരത്തിലുള്ള ഇൻസ്റ്റാളേഷന്റെ സഹായത്തോടെ യഥാർത്ഥ സാഹചര്യങ്ങളിൽ ജലവിതരണത്തിന്റെ സ്വഭാവം നിങ്ങൾക്ക് അനുകരിക്കാനാകുമോ തീർച്ചയായും തികച്ചും അതിനാൽ ഈ പ്രത്യേക സന്ദർഭത്തിൽ ഒരാൾക്ക് കടന്നുപോകാൻ കഴിയുന്ന വ്യത്യാസങ്ങൾ ഇവയാണ് നിങ്ങൾക്ക് SCADA PLC കൾ പ്രക്രിയ നിയന്ത്രണം തുടങ്ങിയവയെക്കുറിച്ച് അറിയാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഈ പരാമർശങ്ങളിൽ ചിലത് ഇവയാണ് കടന്നുപോകാൻ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ചിലത് ഇവയാണ് ഇതോടെ ഞങ്ങൾ ഈ പ്രത്യേക പ്രഭാഷണത്തിന്റെ അവസാനത്തിലേക്ക് എത്തുന്നു